ബ്ലാക്ക് ബോഡി റേഡിയേഷൻ III സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റിയും ബ്ലാക്ക് ബോഡി വികിരണത്തിനുള്ളിലെ റേഡിയേഷൻ മർദ്ദവും മുമ്പത്തെ രണ്ട് പ്രഭാഷണങ്ങളിൽ ബ്ലാക്ക് ബോഡിയുടെ ചില അടിസ്ഥാന നിർവചനങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുകയും ഗോളാകൃതിയിലുള്ള അറയാൽ അതിനെ പ്രതിനിധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് T താപനിലയിലുള്ള റേഡിയേഷൻ പഠിക്കണമെങ്കിൽ അതിനെ T താപനിലയിൽ ഉള്ള ഗോളാകൃതിയിലുള്ള അറഎന്ന് ഞാൻ പറയും ഞാൻ ഇപ്പോൾ നിർവചിക്കാൻ ആഗ്രഹിക്കുന്നത് സ്പെക്ട്രൽ ഡെൻസിറ്റിയെയാണ് ഒരു അറയിലോ ബ്ലാക്ക് ബോഡിലോ ഞങ്ങൾ u എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് നിർവ്വചിക്കുന്നത് നിങ്ങൾ ഇതിനകം കണ്ടിട്ടുണ്ട് ഇവിടെ u എന്നത് ഊർജ്ജ സാന്ദ്രതആയിരുന്നു കഴിഞ്ഞ ലെക്ചറിൽ നമുക്ക് ലഭിച്ച ഫലം ഒരു ബ്ലോക്ക് ബോഡിയിൽ നിന്ന് പുറത്തുവരുന്ന തീവ്രത uc4 ആണ് ഇതാണ് അതിൽ നിന്ന് പുറത്തുവരുന്ന തീവ്രത സാധാരണയായിഒരു പ്ലെയിൻ തരംഗത്തിന് നൽകിയിരുന്ന നിങ്ങളുടെ വൈദ്യുതകാന്തിക സിദ്ധാന്തത്തിന്റെ തീവ്രത uc നിങ്ങൾ ഓർത്തെടുക്കുകയാണെകിൽ ഇവിടെപുറത്തുവരുന്ന തീവ്രത uc4 ആയി മാറുന്നു കാരണം വികിരണം ഐസോട്രോപിക് ആയതിനാൽ എല്ലാ ദിശയിൽ നിന്നും വരുന്നത് നിങ്ങൾ മുൻ പ്രഭാഷണത്തിലെ ഡെറിവേഷനിൽ കണ്ടതാണ് ഇപ്പോൾ സ്പെക്ട്രൽ ഡെൻസിറ്റി ചെയ്യുന്നത് പുറത്തുവരുന്ന ആ വികിരണമാണ് അതിനാൽ ഞാൻ ഇത് പതുക്കെ എഴുതട്ടെ പുറത്തുവരുന്ന വികിരണത്തിന് എല്ലാ തരംഗദൈർഘ്യങ്ങളുമുണ്ട് അതിനാൽ അതിന് ചുവപ്പും മഞ്ഞയും നിറമായിരിക്കും നീല നിറം അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡ് എല്ലാം അതിലുണ്ട് റേഡിയേഷൻ സാന്ദ്രതയോ തീവ്രതയോ നമുക്ക് എഴുതാൻ കഴിയുന്ന വികിരണം മുഴുവൻ സ്പെക്ട്രത്തിലും വിതരണം ചെയ്യപ്പെടുന്നു അതിനർത്ഥം എനിക്ക് തീവ്രത I ഉണ്ടെങ്കിൽ അത് ഓരോ λ യ്ക്കും ചില ഡെൽറ്റ I യുടെ സംഗ്രഹമായിരിക്കും എന്നെ വിശദമാക്കാൻ അനുവദിക്കൂ അതിനാൽ ഞാൻ ലാംഡയും തീവ്രത കർവ്വും നോക്കുകയാണെങ്കിൽ λ1 എന്ന് പറയുന്നതിന് സമീപം കുറച്ച് തീവ്രത ഡെൽറ്റ I ഉണ്ടായിരിക്കും λ2 ന് സമീപമുള്ള മറ്റ് ചില തീവ്രത I തുടങ്ങിയവ അതിനാൽ ഓരോ ഇടവേളയിലും വ്യത്യസ്ത λ യ്ക്ക് വ്യത്യസ്തമായേക്കാവുന്ന ചില തീവ്രതയുണ്ട് ശരിയാണ് അതിനാൽ ഞാനിത് എഴുതട്ടെ അപ്പോൾ ഞാൻ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ തരംഗദൈർഘ്യത്തിന് സമീപമുള്ള തീവ്രതയുടെ ഭാഗമാണ് Δ I λ ശരി അത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക് തോന്നുന്നത് ഇപ്പോൾ ഇന്റർനെറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത ഒരു ചിത്രത്തിലൂടെ ഞാൻ കാണിക്കാം അതായത് ഇത് വികിരണത്തിന്റെ തീവ്രതയുടെ ചിത്രമാണ് ശരി അതിനാൽ ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചുതരാം ഇതാണ് നിങ്ങൾ കാണുന്ന ചിത്രംവികിരണത്തിന്റെ ഏത് തീവ്രതയിലോ അതോ നമ്മൾ വിളിക്കുന്ന വികിരണത്തിന്റെ സ്പെക്ട്രൽ സാന്ദ്രതയിലോ പ്ലോട്ട് ചെയ്യണമെന്നു ഞാൻ തീരുമാനിക്കുകയാണ് അത് വ്യത്യസ്ത ഊഷ്മാവിൽ ഇവിടെ പ്ലോട്ട് ചെയുന്നു ഉദാഹരണത്തിന് ഒരു കർവ് ഇതുപോലെയാണ് രണ്ടാമത്തെ കർവ് ഇതുപോലെയാണ് മൂന്നാമത്തെ കർവ് ഇതുപോലെയും നാലാമത്തെ കർവ് ഇവിടെയും കാണപ്പെടുന്നു ഉയർന്ന വക്രമായതിനാൽ മുകളിലെ കർവ് 7000 K ആണ് മധ്യ കർവ് ചുവപ്പ് ഏകദേശം 6000 K ആണ് നീലനിറം 5333 k യിലും മറ്റും ഊഷ്മാവ് താഴുന്നതിനനുസരിച്ച് കർവ് താഴ്ന്നു താഴ്ന്നു പോകുകയും ചെയ്യുന്നു പീക്ക് താഴേക്കും താഴേക്കും പോകുന്നു ഞങ്ങൾ ഇവിടെ അർത്ഥമാക്കുന്നത് ഞാൻ സ്പെക്ട്രൽ ഡെൻസിറ്റി എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു പ്രത്യേക λ എടുത്ത് ഈ കർവ് ന് കീഴിലുള്ള പ്രദേശം കണക്കാക്കുകയാണെങ്കിൽ ഈ ലാംഡയിൽ അല്ലെങ്കിൽ ഇവിടെ മറ്റൊരു λ എന്ന സ്ഥലത്ത് ഏരിയ കണക്കാക്കുക ഇത് എനിക്ക് ഈ d λ യിലെ ഊർജ്ജത്തിന്റെ ഉള്ളടക്കം നൽകും അതിനാൽ ഇപ്പോൾ എനിക്ക് ഈ സ്പെക്ട്രൽ സാന്ദ്രത നിങ്ങൾക്ക് സ്പെക്ട്രൽ തീവ്രതയാണെന്ന് നിർവചിക്കാംIλ അത്തരത്തിൽ λ Δλ എന്നത് λ മുതൽ λ Δ λ വരെയുള്ള തീവ്രത സംഭാവനയാണ് അതിനാൽ ഈ മുഴുവൻ കർവിലും ഞാൻ സംയോജിപ്പിച്ചാൽ അത് എനിക്ക് മൊത്തം തീവ്രത നൽകുന്നു സമാനമായ രീതിയിൽ എനിക്ക് ഊർജത്തിന്റെ ഒരു സ്പെക്ട്രൽ സാന്ദ്രത uλ നിർവചിക്കാം അതായത് uλΔλ എന്നത് λ തരംഗദൈർഘ്യത്തിനും λ Δ λ നും ഇടയിലുള്ള ഊർജ്ജ സാന്ദ്രതയാണ് ശ്രദ്ധിക്കുക തത്തുല്യമായി എനിക്ക് uν Δν നിർവചിക്കാം അത് ν ആവൃത്തിയും ν Δν ഉം തമ്മിലുള്ള ഊർജ്ജ സാന്ദ്രത ആയിരിക്കും വളരെ സാധാരണമായ തെറ്റ് uλ ഉം uν ഉം ബന്ധപ്പെടുത്തുന്നതിലെ പൊതുവായ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കാം പൊതുവായ തെറ്റ് ഇതാണ് νc λ ആയതിനാൽ ഒരാൾ കരുതുന്നു uλ uλc ആണ് എന്ന് ഇത് ശരിയല്ല നിങ്ങൾ നോക്കേണ്ടത് ശരിയായ മാർഗ്ഗം uλΔ λuνΔν ആണ് എന്നതാണ് ഇവിടെ Δ ν Δ λ യുമായി യോജിക്കുന്നു λcv Δ λcv² Δν ആയതിനാൽ നമുക്ക് uλcv²∆vuλΔν ഉണ്ട് ഊർജ്ജത്തിന്റെ ഉള്ളടക്കം ഒന്നുതന്നെ ആയതിനാൽ ഇപ്പോൾ എനിക്ക് Δν റദ്ദാക്കാം എനിക്ക് u λv²uᵥc ലഭിക്കും കാരണം ഇവയെല്ലാം മാഗ്നിറ്റ്യൂഡുകളാണ് മൈനസ് ചിഹ്നത്തെക്കുറിച്ച് ഞാൻ വിഷമിക്കുന്നില്ല അതിനാൽ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക ഇത് ആളുകൾ ചെയ്യുന്ന വളരെ സാധാരണമായ തെറ്റാണ് അതിനാൽ ഞാൻ നിങ്ങൾക്കായി ഒരു സ്പെക്ട്രൽ സാന്ദ്രത രൂപകൽപ്പന ചെയ്തു സൈദ്ധാന്തികമായി വിശകലനം ചെയ്യുന്നു എനിക്ക് ഒരു കാര്യം കൂടി ആവശ്യമാണ് അത് ഞാൻ ചെയ്യും തുടർന്ന് ഈ പ്രഭാഷണം അവസാനിക്കും അടുത്ത അളവ് ഞങ്ങളുടെ വിശകലനത്തിൽ ഒരു അറയ്ക്കുള്ളിലെ വികിരണം മൂലമുണ്ടാകുന്ന മർദ്ദം ആവശ്യമായി വരും കൂടാതെ ഈ ചെറിയ പ്രദേശത്ത് എല്ലായിടത്തുനിന്നും വീഴുന്ന വികിരണം മൂലമുള്ള മർദ്ദം ഞങ്ങൾ കണക്കാക്കും അതാണ് മർദ്ദ സൂത്രവാക്യം ഇപ്പോൾ സമ്മർദ്ദത്തിനായി ഞാൻ കണക്കാക്കേണ്ടത് യൂണിറ്റ് ഏരിയയിലെ ശക്തിയാണ് അത് ഒന്നുമല്ല യൂണിറ്റ് ഏരിയയ്ക്ക് യൂണിറ്റ് സമയത്തിനുള്ള മൊമെന്റം ട്രാൻസ്ഫർ അതിനാൽ എനിക്ക് ഇപ്പോൾ വേണ്ടത് ഈ പ്രദേശത്ത് വീഴുന്ന വേഗതയാണ് ഇപ്പോൾ പ്ലെയിൻ തരംഗങ്ങൾക്കായി നിങ്ങൾ വൈദ്യുതകാന്തിക സിദ്ധാന്തത്തിൽ നിന്ന് ഓർക്കുകയാണെങ്കിൽ മൊമെന്റം p അതായത് യൂണിറ്റ് വോളിയത്തിന് മൊമെന്റം ഉള്ളടക്കം u c പോലെയാണ് നമുക്ക് അത് നോക്കാം അതിനാൽ ഇത് മറ്റൊന്നുമല്ല യൂണിറ്റ് വോളിയത്തിന് മൊമെന്റം ആയ മൊമെന്റം ഡെൻസിറ്റി നിങ്ങൾക്ക് ½mv²v എന്ന അളവിലുള്ളതിനാൽ ഇത് അളവനുസരിച്ച് ശരിയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് m v ന് തുല്യമാണ് അതിനാൽ ഇത് അളവനുസരിച്ച് ശരിയാണ് ഇത് യൂണിറ്റ് വോള്യത്തിലാണ് അതിനാൽ ഇത് യൂണിറ്റ് വോളിയത്തിന് ആക്കം ആണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഈ അറയിൽ ഈ ഭാഗത്ത് a എല്ലായിടത്തുനിന്നും വികിരണം വരുന്നു അത് കുറച്ച് ആക്കം കൊണ്ടുവരുന്നു ആ ആക്കം ബലം പ്രയോഗിക്കുന്നു അതിനാൽ മൊമെന്റം ട്രാൻസ്ഫർ എന്തുതന്നെയായാലും യൂണിറ്റ് സമയത്തിനുള്ള മൊമെന്റം ആംഗിളിന്റെ ഒരേയൊരു ഘടകം പ്രാധാന്യമുള്ളത് ഒരു ആംഗിൾ തീറ്റയിലുള്ള ഇതിന് ലംബമാണ് അതിനാൽ എനിക്ക് കണക്കാക്കേണ്ടത് അതിന്റെ ഘടകത്തെ എത്രമാത്രം ആക്കം കൂട്ടുന്നു എന്നതാണ് അതിനാൽ ഇത് p ആണെന്ന് കരുതുക ഇത് pcosθ ആയിരിക്കണം ആ ആവേഗം വരുന്ന ഓരോ വശത്തിനും പ്രതിഫലനത്തിലൂടെ ഒരു ആക്കം പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ ഈ ഭാഗവും പ്രസരിക്കുന്നു അങ്ങനെ ആക്കം കൂടിയ സംഭാഷണം ഉണ്ടാകാൻ ഒരു ബാക്ക് ഫോഴ്സ് ഉണ്ട് അതിനാൽ നെറ്റ് മൊമെന്റം ആകാൻ പോകുന്നു ഞാൻ ഇത് കണക്കാക്കി അതിനെ 2 കൊണ്ട് ഗുണിക്കും അതിനാൽ എല്ലാ വശങ്ങളിൽ നിന്നും വരുന്ന മൊമെന്റം എനിക്ക് കണക്കാക്കാം അതിനാൽ ഈ ഭാഗത്ത് നിന്ന് ഒരു ആക്കം വന്നാലും ആക്കം കൂടും അതിനാൽ വരുന്ന ആകെ മൊമെന്റം 2 കൊണ്ട് ഗുണിച്ച് ഞാൻ കണക്കാക്കും അത് എനിക്ക് ശക്തിയുടെ ഉത്തരം നൽകും അതിനാൽ ഞങ്ങൾ മുമ്പ് ചെയ്തതുപോലെ വീണ്ടും ഒരു കണക്കുകൂട്ടൽ നടത്തും ഈ അറയും ഈ പ്രദേശവും ഞാൻ പരിഗണിക്കും ആക്കം വരുന്നിടത്ത് നിന്ന് ഈ വോളിയം പരിഗണിക്കുക അതിനാൽ ഞാൻ വീണ്ടും d Ω എടുക്കുകയാണെങ്കിൽ ഈ നീളം Δr അപ്പോൾ വരുന്ന ആക്കം αcosθ4πr² ആയിരിക്കും ഇത് വികിരണം ഇങ്ങനെ വരാനുള്ള സാധ്യതയാണ് അപ്പോൾ മൊമെന്റത്തിന്റെ മൊത്തം അളവ് uc ആയിരിക്കും ഈ മേഖലയിലെ മൊമെന്റം ഉള്ളടക്കം ഈ വോള്യത്തിൽ ഞാൻ കാണിക്കുന്ന നീല വോള്യം d Ωr2 Δr ആണ് മർദ്ദം കണക്കാക്കുന്നതിന് ഞാൻ ഇതിനെ കോസൈൻ ഓഫ് തീറ്റcosine of θ കൊണ്ട് ഗുണിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടിന്റെ ഘടകം കൊണ്ട് ഗുണിക്കും കാരണം ഈ പ്രദേശത്ത് നിന്നുള്ള റേഡിയേഷൻ പ്രതിഫലനമോ റേഡിയേഷൻ ഉദ്വമനമോ അതിനാൽ ഇത് നെറ്റ് മൊമെന്റം ആയിരിക്കും ഇപ്പോൾ വീണ്ടും മുമ്പത്തെപ്പോലെ നമുക്ക് Δr Δt സമയത്തിന്റെ ആകെ ദൈർഘ്യം ct ആയിരിക്കും അതിനാൽ cosθ എന്നത് 0 മുതൽ 1 വരെ വ്യത്യാസപ്പെടും ϕ 0 മുതൽ 2 π വരെ വ്യത്യാസപ്പെടും അതിനാൽ Δt എന്ന സമയത്തിലേക്കുള്ള മൊമെന്റം ട്രാൻസ്ഫർ 2α4πc∆tuc2π∫₀¹cos²θdcosθ എന്നതിന് തുല്യമായിരിക്കും അതാണ് മൊമെന്റം ട്രാൻസ്ഫർ അതിനാൽ നമുക്ക് ഇതിനെ Δ p എന്ന് വിളിക്കാം നമുക്ക് ഇപ്പോൾ കുറച്ച് നിബന്ധനകൾ റദ്ദാക്കാം ഈ 2 4 π എന്നിവ ഉപയോഗിച്ച് ഈ 2 π റദ്ദാക്കുന്നു c ഈ c ഉപയോഗിച്ച് റദ്ദാക്കുന്നു അതിനാൽ എനിക്ക് ലഭിക്കുന്നു ഈ അവിഭാജ്യത ഈ അവിഭാജ്യത ഒന്നുമല്ല മൂന്നിലൊന്നാണ് അതിനാൽ എനിക്ക് ലഭിക്കുന്നത് Δ pu Δt 3 ആണ് ഇത് സൂചിപ്പിക്കുന്നത് Δ p Δt എന്നത് ഒരു യൂണിറ്റ് സമയത്തിന് സാധാരണഗതിയിലുള്ള മൊമെന്റം ട്രാൻസ്ഫറിന് തുല്യമാണ് അതിനാൽ ഇത് മറ്റൊന്നുമല്ല സമ്മർദ്ദമാണ് ഇത് u3 ആയി മാറുന്നു അതിനാൽ നമ്മൾ ഇപ്പോൾ കണ്ടത് ഒരു ബ്ലാക്ക് ബോഡിക്ക് ഇത് സ്പെക്ട്രൽ സാന്ദ്രതയാണ് ഉയർന്ന ഊഷ്മാവിൽ ഇതുപോലെയും താപനില കുറയുന്നതിനനുസരിച്ച് ഇത് ഇതുപോലെ ആയിത്തീരുകയും p അറയ്ക്കുള്ളിലെ മർദ്ദം u 3 ആണ് വരാനിരിക്കുന്ന പ്രഭാഷണങ്ങളിൽ നമ്മൾ വിശകലനത്തിനായി ഇവ ഉപയോഗിക്കും